കഴിഞ്ഞ കുറച്ച് സെഷനുകളിൽ വിവിധ ആശയപരവും സൈദ്ധാന്തികവുമായ വശങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു കോർപ്പറേറ്റ് ഭരണം അക്കൌണ്ടിംഗ് മാനദണ്ഡങ്ങൾ അക്കൌണ്ടിങ്ങിന്റെ പരിണാമം തുടങ്ങിയവയെക്കുറിച്ച് ഇതിനകം ചർച്ചചെയ്തു ഇനി നമുക്ക് പ്രോബ്ലം സോൾവിങ് ലേക് കയറാം ബാലൻസ് ഷീറ്റ് പി എൽ ക്യാഷ് ഫ്ലോ എന്നിവയെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു ഇപ്പോൾ നമുക്ക് യഥാർത്ഥ കേസുകൾ എടുത്ത് ബാലൻസ് ഷീറ്റും പി എൽ എന്നിവയും തയ്യാറാക്കാൻ ശ്രമിക്കാം അതിനാൽ ഇന്ന് നമ്മൾ സീ എന്റർടൈൻമെന്റ് ടെലിവിഷൻ എന്ന കമ്പനിയുടെ കേസ് എടുക്കാം ഇത് നിങ്ങൾക്കെല്ലാവർക്കും രസകരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഈ കേസ് ഞാൻ നേരത്തെ തന്നെ നിങ്ങളുമായി പങ്കിട്ടിട്ടുണ്ടല്ലോ ദയവായി എല്ലാവരും ഒരു പ്രിന്റൌട്ട് എടുത്ത് എന്റെ ഒപ്പം ഈ കേസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾ ഇത് വരെ പ്രിന്റൌട്ട് എടുത്തില്ല എങ്കിൽ ഈ വീഡിയോ ഇവിടെ നിർത്തി പ്രിൻറൌട് എടുത്തിട്ട് വന്നു തുടർന്ന് കാണുക ഈ പ്രത്യേക കേസിൽ തത്സമയം പ്രവർത്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ലിങ്ക് ഇതിനകം നിങ്ങളുമായി പങ്കിട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഭാഗങ്ങളുണ്ട് ജംബിൾഡ് ബാലൻസ് ഷീറ്റും പി എൽ എന്നിവയും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഒഫീഷ്യൽ സീഖ്വെൻസ് പോലെ അല്ല ഇത് നിങ്ങൾ ഇതിനെ ഒഫീഷ്യൽ സീഖ്വെൻസ് ആക്കി ലാഭം കണ്ടുപിടിക്കുകയും പിഎൽ തയാറാക്കുകയും വേണം 3 വർഷത്തെ ഡാറ്റ നിങ്ങൾക്ക് നനൽകിയിട്ടുണ്ട് മൂന്ന് വർഷത്തെ ട്രെൻഡ് താരതമ്യം ചെയ്യാൻ അത് നിങ്ങളെ സഹായിക്കും ക്രമേണ ഇത് അനാലിസിസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും കാരണം വരുന്ന സെഷനുകളിൽ ഞങ്ങൾ വിവിധ റിഷിയോസ് റെഷിയോസ് കണക്കാക്കുകയും സാമ്പത്തിക പ്രസ്താവനകളുടെ വിശകലനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യും ഇന്ന് നമ്മൾ അനാലിസിസിലേക് കടക്കുന്നില്ല മൂന്ന് വർഷത്തെ കണക്കു മാത്രം ശ്രധികുക നിങ്ങൾക് ട്രെൻഡ് മനസിലാവും അപ്പോൾ നിങ്ങൾ തയ്യാറാണോ ഷീറ്റ് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക പി എൽ അക്കൌണ്ടിൽ നിന്ന് ആരംഭിക്കാം നോക്കുക ആദ്യ ഇനം ഡിപ്രീസിയേഷൻ അമോർടൈസേഷൻ ഒരു പ്രത്യേക ഇനം എവിടെ പോകും എന്ന് എഴുതുന്നതിനായി ഈ കോളം ഉപയോഗിക്കുന്നു പി എൽ എന്നിവയിലെ ഇനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഫോർമാറ്റ് നോക്കുക ഇത് വളരെ ലളിതമായ ഒരു ഫോർമാറ്റാണ് നമ്മൾ വരുമാനത്തിൽ നിന്ന് ആരംഭിക്കുന്നു വിവിധ ചെലവുകൾ കുറയ്ക്കുന്നു തുടർന്ന് നികുതിയ്ക്ക് മുമ്പായി ലാഭം കണ്ടു പിടിക്കുന്നു തുടർന്ന് നികുതിയുമായി ബന്ധപ്പെട്ട വിവിധ ഇനങ്ങൾ രേഖപ്പെടുത്തും ഫോർമാറ്റ് അനുസരിച്ച് കുറച്ച് ഇനങ്ങൾ കൂടി ഉണ്ട് ഒടുവിൽ നിങ്ങൾക്ക് ലാഭം കണ്ടു പിടിക്കാം അതിനാൽ ഓരോ ഇനവും വായിക്കുക എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫോറത്തിൽ ചർച്ചചെയ്യാം നിങ്ങളുടെ ചോദ്യങ്ങൾ ഉടനടി പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കും അപ്പോൾ ഓരോ ഇനവും എന്താണ് എന്ന് മനസിലാക്കി ഫോർമാറ്റിൽ എവിടെ ഇടണം എന്ന് മനസിലാക്കുക അപ്പോൾ ആദ്യത്തെ ഇനം ഡിപ്രീസിയേഷനും അമോർടൈസേഷനും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് വളരെ ലളിതമായ ഒരു ഇനമാണ് ഇതിനകം തന്നെ അത് ചെലവാണെന്ന് നൽകിയിട്ടുണ്ട് അതിനാൽ ഞങ്ങൾ അത് ചെലവുകളുടെ തലക്കെട്ടിന് കീഴിൽ വയ്ക്കും അതെ പോലെ ഓരോ ഇനത്തിന്റെ കാര്യത്തിലും അടുത്തത് മറ്റ് വരുമാനമാണ് പേര് സൂചിപ്പിക്കുന്നത് അടിസ്ഥാനപരമായി ഇത് ഒരു വരുമാനമാണ് മുൻ വർഷങ്ങളിലെ നികുതി നികുതിയുമായി ബന്ധപ്പെട്ട ഇനമാണിത് അതിനാൽ സംഭവിക്കാനിടയുള്ളത് നികുതിയുടെ ചില ഇനം മുൻവർഷവുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ നികുതിയുടെ അസ്സസ്മെന്റ് നടപ്പ് വർഷത്തിൽ നടത്തിയിട്ടുണ്ട് അതിനാലാണ് ഇപ്പോഴത്തെ ഇടപാടുകളിൽ ഇത് വരുന്നത് നിങ്ങൾക്ക് തുക പരിശോധിക്കാം ഈ തുകകൾ താരതമ്യേന ചെറുതാണ് മാർച്ച് 17 5 40 ഉം 16 ൽ 00ഉം മാർച്ച് 15 ൽമൈനസ് 1 88 ഉം എന്തുകൊണ്ട് ഇത് മൈനസ് ടാക്സ് ആയി നേരത്തെ അടച്ച അധിക തുകയ്ക്ക് ഒരുപക്ഷേ അവർക്ക് കുറച്ച് ക്രെഡിറ്റ് ലഭിച്ചിരിക്കാം നികുതി ഏർപ്പെടുത്തുന്നത് ചെലവ് തലക്കെട്ടിലാണ് അതിനാലാണ് തുക നെഗറ്റീവ് ആയി വന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ മറ്റ് ചെലവുകൾ ഒരു ചെലവാണ് അതിനാൽ ഇ എന്ന് വീണ്ടും അടയാളപ്പെടുത്തുക ഫിനാൻസ് ചെലവ് ഇത് ഒരു ചെലവാണ് ഡിഫേർഡ് റ്റാക്സ് ഇത് നികുതിയുമായി ബന്ധപ്പെട്ട ഇനമാണ് അതിനാൽ അതിനെ ടി എന്ന് അടയാളപ്പെടുത്തുന്നു ഡിഫേർഡ് റ്റാക്സ് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് രണ്ട് തരത്തിലുള്ള റ്റാക്സ്കളുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു കറന്റ് റ്റാക്സ് ഡിഫേർഡ് റ്റാക്സ് അതേ വർഷം തന്നെ നികുതി അടയ്ക്കേണ്ടിവരുമ്പോൾ അതിനെ കറന്റ് റ്റാക്സ് എന്ന് വിളിക്കുന്നു മാറ്റിവയ്ക്കൽ അനുവദിക്കുകയാണെങ്കിൽ അതിനർത്ഥം നികുതി ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ ഇത് 2 3 4 വർഷങ്ങളിൽ അല്ലെങ്കിൽ അതിനുശേഷമാണ് അടയ്ക്കേണ്ടത് അതിനെ ഡിഫേർഡ് റ്റാക്സ് എന്ന് വിളിക്കുന്നു പക്ഷേ രണ്ടും പി എൽ ചാർജ് ചെയ്യുന്നു അതിനാൽ പി എൽ കീഴിൽ ടി എന്ന് അടയാളപ്പെടുത്തും മറ്റു ഓപ്പറേറ്റിംഗ് റവന്യു ഇത് ഒരു വരുമാന ഇനമാണ് അതിനാൽ ഞാൻ അതിനെ ഐ എന്ന് അടയാളപ്പെടുത്തുന്നു ഇറക്കുമതി ചെയ്ത അസംസ്കൃത വസ്തുക്കൾ ഇത് ഒരു കുഴപ്പിക്കുന്ന ഐറ്റം ആണ് അതിനാൽ ഒരു ഫുട് നോട്ട് ആയി കൊടുക്കേണ്ടതാണ് ഇത് പി എൽ എന്നിവയുടെ ഭാഗമല്ല ഇത് ഒരു അധിക വിവരമാണ് സീ ടിവി സർവീസ് ഇൻഡസ്ടറി ആയതു കൊണ്ട് ഭാഗ്യവശാൽ അസംസ്കൃത വസ്തുക്കളുടെ ഇൻപുട്ടുകൾ ഇല്ല അതിനാൽ ഇനം 000 ആണ് പക്ഷേ നമ്മൾ അത് NA ആയി ഇവിടെ ഇടുന്നു അതിനാൽ ഈ ഇനം സാധാരണ ഗതിയിൽ വരരുതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അടുത്തത് എക്സ്സെപ്ഷണൽ ഐറ്റംസ് ക്രെഡിറ്റ് ആണ് അതിനാൽ ഇത് അസാധാരണമായ ഇനങ്ങളായി ഇടുന്നു കാരണം റെഗുലർ ഇനങ്ങൾക്ക് ശേഷം അസാധാരണവും അധികവുമായ ഇനങ്ങൾ ഞങ്ങൾ പ്രത്യേകം കാണിക്കേണ്ടതുണ്ട് അതിനാൽ സാധാരണ ചെലവുകളിൽ നിന്ന് വേർതിരിച്ചറിയാൻ ഞാൻ അതിനെ EXC എന്ന് അടയാളപ്പെടുത്തി അതിനാൽ അസാധാരണമായ ഇനങ്ങൾ ക്രെഡിറ്റ് സ്വഭാവമുള്ളവയാണ് ഈ വർഷം 47 മുൻ വർഷങ്ങളിൽ 00 അടുത്തത് MAT എൻടൈറ്റിൽമെൻറ് ക്രെഡിറ്റ് ആണ് ഇപ്പോൾ എന്താണ് ഈ എൻടൈറ്റിൽമെൻറ് ക്രെഡിറ്റ് ഒന്നാമതായി MAT എന്താണ് MAT ന്റെ പൂർണ്ണരൂപം മിനിമം ആൾട്ടർനേറ്റ് റ്റാക്സ് എന്നാണ് ആദായനികുതിക്ക് കീഴിലുള്ള ഇന്ത്യൻ നികുതി നിയമങ്ങൾ അനുസരിച്ച് നികുതി ബുക്ക് പ്രോഫിറ്റ്ക്കാൾ ഒരു നിശ്ചിത ശതമാനം കുറവാണെന്ന് കരുതുക രണ്ട് സെറ്റ് ലാഭമുണ്ടെന്ന് കാണുക അതിലൊന്നാണ് സാധാരണയായി കണക്കാക്കുന്ന ലാഭം അത് ബുക്ക് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നു നികുതി ആവശ്യത്തിനായി പ്രത്യേക ലാഭം കണക്കാക്കുന്നു ടാക്സബിൾ പ്രോഫിറ്റ് സാധാരണ ലാഭത്തേക്കാൾ വളരെ കുറവാണെങ്കിൽ ബുക്ക് പ്രോഫിറ്റ്റിന്റെ 18 ശതമാനമായി കണക്കാക്കപ്പെടുന്ന മിനിമം ടാക്സെങ്കിലും നിങ്ങൾ നൽകണമെന്ന് സർക്കാർ പറയുന്നു പി എൽ അക്കൌണ്ടിൽ നിന്നുള്ള ബുക്ക് പ്രോഫിറ്റ് 100 ആണെന്ന് കരുതുക എന്നാൽ നികുതി ആവശ്യങ്ങൾക്ക് ലാഭം 10 മാത്രമാണ് ഇത് സംഭവിക്കുമോ ഉത്തരം അതെ അങ്ങനെ സംഭവിക്കാം കാരണം ഡിപ്രീസിയേഷൻ കൂടുതലായിരിക്കാം ചില ചെലവുകൾ നികുതിയിൽ കൂടുതലാകാം ചില വരുമാനങ്ങളെ നികുതി ആവശ്യങ്ങൾക്കായി ഒഴിവാക്കാം അതിനാലാണ് പി എൽ എന്നിവ അനുസരിച്ച് അറ്റാദായം 100 ആയിരിക്കാം എന്നാൽ നികുതി നൽകാവുന്ന വരുമാനം 10 മാത്രമായിരിക്കാം അതിനർത്ഥം നിങ്ങൾ 10 ന്റെ വരുമാനത്തിന്മേൽ മാത്രമേ നികുതി നൽകൂ അതായത് നിങ്ങൾ കണക്കാക്കിയ ഏത് പ്രൊഫൈറ്റിന്റെയും അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 18 ശതമാനം എങ്കിലും നികുതിയായി നൽകണം അതിനെ മിനിമം ആൾട്ടർനേറ്റ് റ്റാക്സ് എന്ന് വിളിക്കുന്നു നിങ്ങൾ അടയ്ക്കുന്ന തുക നിങ്ങൾക്ക് പിന്നീട് ക്രെഡിറ്റ് ലഭിക്കും മറ്റൊരു വർഷത്തിൽ നിങ്ങളുടെ ലാഭം 20 ആണെന്ന് കരുതുക പക്ഷേ ആദായനികുതി ആവശ്യത്തിനായി ലാഭം കൂടുതലാണ് 50 ആണെന്ന് ഇരിക്കട്ടെ അതിനാൽ പുസ്തക ആവശ്യത്തിനോ പി എൽ അക്കൌണ്ടിനോ ഇത് 20 ആണ് എന്നാൽ ആ വർഷം വരുമാനനികുതി ഉയർന്നതാണ് നിങ്ങൾ 50 ന് നികുതി അടയ്ക്കും ഇതിനോടകം നിങ്ങൾ അധികം നികുതി MAT ആയി അടച്ചിട്ടുണ്ട് അത് നിങ്ങൾക് തിരികെ ക്രെഡിറ്റ് ആകും അതിനാലാണ് ഇവിടെ നിങ്ങൾക്ക് MAT ക്രെഡിറ്റ് എന്റൈറ്റിൽമെന്റ് എന്നറിയപ്പെടുന്ന ഒരു ഇനം കാണാൻ കഴിയുന്നത് അതിനാൽ നടപ്പ് വർഷത്തിൽ 0 മുൻ വർഷത്തിൽ 0 എന്നാൽ 3 വർഷങ്ങൾക്ക് മുമ്പ് ഇത് മൈനസ് 148 ആയിരുന്നു കാരണം ഇത് ക്രെഡിറ്റ് എൻടൈറ്റിൽമെൻറ് ആണ് ഇപ്പോൾ ഇത് ടാക്സേഷൻ ഇനത്തിൽ വരും അതിനാൽ ഇപ്പോൾ ഞാൻ അതിനെ ടി ആയി ഇടുന്നു അടുത്തത് ഇക്വിറ്റി ഷെയർ ഡിവിഡന്റാണ് കമ്പനി 3 വർഷവും സ്ഥിരമായി 216 ലാഭവിഹിതം നൽകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ഏത് തരത്തിലായിരിക്കും ഇത് വരുമാനമോ ചെലവോ യഥാർത്ഥത്തിൽ അത് വരുമാനമോ ചെലമോ അല്ല ലാഭം കണക്കാക്കിയതിനുശേഷം ഇത് ഉടമസ്ഥർക്ക് വിതരണം ചെയ്യുന്നു അതിനാൽ അപ്പ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് ഇതിനെ വിളിക്കുന്നു അതിനാൽ ഞാൻ ഇത് APP ആയി ഇടുകയാണ് I E T എന്നൊക്കെയുള്ള ഈ പ്രത്യേക വർഗ്ഗീകരണം നമ്മുടെ സ്വന്തം കണക്കുകൂട്ടലിനുള്ളതാണ് അത് ഒരു നിയമത്തിനും കീഴിലല്ല ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഇത് എക്സ്പെൻസ് ആണ് അത് കൊണ്ട് ഇ എന്ന് ഇടുന്നു അടുത്തത് ഡിവിഡന്റിന് നികുതി എന്ന് വച്ചാൽ എന്താണ് കമ്പനി ഏതെങ്കിലും ലാഭവിഹിതം നൽകുമ്പോഴെല്ലാം അവർ നൽകിയ ലാഭവിഹിതത്തിന് നികുതി നൽകണം ഇത് ആദായനികുതിയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഓർമ്മിക്കുക നേടിയ ലാഭത്തിൽ നിങ്ങൾ കുറച്ച് നികുതി നൽകണം അതാണ് ആദായനികുതി പ്രോഫിറ്റ് ബിഫോർ ടാക്സ് മൈനസ് ടാക്സ് അപ്പോൾ നമുക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും അതിൽ നിന്ന് ആണ് നമ്മൾ ഡിവിഡന്റ് നൽകുന്നത് ആ ഡിവിഡന്റിന് നിങ്ങൾ കുറച്ചു ടാക്സ് അടയ്ക്കുന്നു അതിനെ ആണ് ടാക്സ് ഓൺ ഡിവിഡന്റ് എന്ന് വിളിക്കുന്നത് ഇത് സാധാരണ നികുതിയുടെ ഭാഗമല്ല ഇതും പ്രോഫിറ്റ് അപ്പ്രോപ്രിയേഷന്റെ ഭാഗമാണ് അതിനാൽ നിങ്ങൾ ഇത് APP ആയി ഇടുക അടുത്തത് പ്രീഫെറെൻസ് ഷെയർ ഡിവിഡന്റാണ് അത് എവിടെ പോകും വീണ്ടും ഇത് ഒരു തരം ലാഭവിഹിതമാണ് അതിനാൽ ഇത് APP ആയി ഇടുന്നു നിലവിലെ വർഷം ഇത് 0 ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കഴിഞ്ഞ 2 വർഷത്തിൽ ഇത് 121 121 ആണ് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു ദയവായി ഇത് സോൾവ് ചെയ്യുക എന്നോടൊപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഷീറ്റ് എടുത്ത് ഇനങ്ങൾ അടയാളപ്പെടുത്തുന്നത് തുടരുക അല്ലെങ്കിൽ നിങ്ങൾക്ക് P L അക്കൌണ്ട് തയ്യാറാക്കാം നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താനും യഥാർത്ഥത്തിൽ പി എൽ എന്നിവ തയ്യാറാക്കാനും കഴിയും ഞാൻ നിങ്ങൾക്ക് സൊല്യൂഷൻ കാണിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സൊല്യൂഷൻ ക്രോസ് ചെക്ക് ചെയ്യാം അടുത്തത് എംപ്ലോയീ ബെനഫിറ്റ് എക്സ്പെൻസ് ഇത് ചെലവുകളിലൊന്നാണ് അതിനാൽ അതിനെ E എന്ന് അടയാളപ്പെടുത്താം കറന്റ് ടാക്സ് രണ്ട് തരം നികുതി നമ്മൾ കണ്ടു ആദ്യം നമ്മൾ ഡിഫേർഡ് ടാക്സ് നോക്കി ഇപ്പോൾ കറൻറ് ടാക്സ് ആണ് അത് T എന്ന് ഇടാം കാരണം ഇത് ഒരു ടാക്സ് ഐറ്റം ആണ് ഇന്ഡിജനിയ്യ്സ് റോ മെറ്റീരിയൽ യഥാർത്ഥത്തിൽ ഇത് കാണിക്കേണ്ട ഒരു ഇനമല്ല തദ്ദേശീയ അസംസ്കൃത വസ്തുക്കളുമാണ് ഇത് ഒരു അധിക വെളിപ്പെടുത്തൽ മാത്രമാണ് അതിനാൽ ഞങ്ങൾ ഇത് NA ആയി ഇടുകയാണ് ഇത് ഒരു അടിക്കുറിപ്പായി വരണം പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം ഇത് കമ്പനിയുടെ പ്രധാന വരുമാനമാണ് ഇതൊരു ടിവി കമ്പനിയാണെന്ന് കാണുക ഒരു നിർമ്മാണ അല്ലെങ്കിൽ വിൽപ്പന കമ്പനിക്ക് പ്രധാന വരുമാനം വിൽപ്പനയാണ് എന്നാൽ ഒരു സേവന കമ്പനിക്ക് പ്രധാന വരുമാനം പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനമാണ് ഈ 3 വർഷത്തെ വരുമാനം നൽകുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ട്രെൻഡ് കണക്കാക്കാനും വിവിധ അനുപാതങ്ങൾ കണക്കാക്കാനും കഴിയും എന്നാൽ ഇപ്പോൾ നമ്മൾ അതിനെ I എന്ന് അടയാളപ്പെടുത്തുകയാണ് അതിനാൽ ഇപ്പോൾ എല്ലാ ഇനങ്ങളും അടയാളപ്പെടുത്തി ഇപ്പോൾ ഈ ഇനങ്ങൾ അടിസ്ഥാനമാക്കി റ്റോട്ടൽ ഓപ്പറേറ്റിംഗ് റവന്യു റ്റോട്ടൽ റവന്യു റ്റോട്ടൽ എക്സ്പെൻസ് PBDIT എന്ന് വച്ചാൽ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ഇന്ട്രെസ്ട് ആൻഡ് ടാക്സ് PBT PAT ഏർണിങ്സ് പെർ ഷെയർ ഇക്വിറ്റി ഡിവിഡൻറ് പെർസെന്റ് ഇവയെല്ലാം കണക്കു കൂട്ടണം അതിനാൽ കണക്കു കൂട്ടുന്നതിന് മുമ്പ് നമ്മൾ എല്ലാം നോട്ട് ചെയ്തു ഞാൻ ഇതിന്റെ സൊല്യൂഷൻസ് കാണിക്കുന്നതിന് മുൻപ് നിങ്ങളോട് ഇത് തന്നെ സോൾവ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു പി എൽ അക്കൌണ്ട് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ വന്നു സൊല്യൂഷൻ നോക്കുക വീഡിയോ തത്കാലം നിറുത്തി ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക ഇപ്പോൾ ക്രോസ് ചെക്ക് ചെയ്യുക സീ ടിവിയുടെ യഥാർത്ഥ പ്രസിദ്ധീകരിച്ച സാമ്പത്തിക പ്രസ്താവനയാണിത് ഇത് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം തുടർന്ന് മറ്റ് പ്രവർത്തന വരുമാനം എന്നിവയിൽ നിന്ന് ആരംഭിക്കുന്നു നിങ്ങൾക്ക് മൊത്തം പ്രവർത്തന വരുമാനം ലഭിക്കും ഇത് ചോദിച്ച ഇനങ്ങളിലൊന്നായിരുന്നു മറ്റ് വരുമാനം മറ്റ് വരുമാനത്തിലും ഓപ്പറേറ്റിംഗ് വരുമാനത്തിലും എന്താണ് വ്യത്യാസം പ്രവർത്തന വരുമാനം നിങ്ങളുടെ ദൈനംദിന ബിസിനസിൽ നിന്ന് നിങ്ങളുടെ ലാഭത്തിൽ നിന്ന് നിങ്ങളുടെ പതിവ് ബിസിനസ്സിൽ നിന്ന് വരുന്നു പതിവ് പ്രവർത്തനങ്ങളിൽ നിന്ന് വരുന്നത് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനമാണ് ഇതുകൂടാതെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടത് മറ്റ് പ്രവർത്തന വരുമാനമാണ് മറ്റ് വരുമാനം നിക്ഷേപ വരുമാനം ബിസിനസിന് പുറത്തുള്ള നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന പണം എന്നിവയാണ് അതിനാൽ മറ്റ് പ്രവർത്തന വരുമാനവും മറ്റ് വരുമാനവും തമ്മിൽ ഒരു വർഗ്ഗീകരണം ഉണ്ട് ഇപ്പോൾ ആകെ വരുമാനമായി വിളിക്കും നിങ്ങൾ കണക്കാക്കിയതുമായി ഇത് പൊരുത്തപ്പെടുന്നുണ്ടോ വരുമാനത്തിലെ ട്രെൻഡുകളും ചെലവുകളും കാണുക സാധാരണയായി ഈ ക്രമത്തിൽ നിങ്ങൾ ഇത് എഴുതണം അതിനു ഒരു ഫോർമാറ്റ് ഉണ്ട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് എംപ്ലോയീ ബെനെഫിറ് ഫിനാൻഷ്യൽ കോസ്റ്റ് ഡിപ്രീസിയേഷൻ മറ്റു എക്സ്പെൻസ് ടോട്ടൽ എക്സ്പെൻസ് നിങ്ങൾക് കൃത്യമായി ലഭിച്ചോ ട്രെൻഡുകൾ വരുമാനത്തിൽ ഉണ്ടായ വർദ്ധനവ് ഒക്കെ നിങ്ങൾക് പരിശോധിക്കാം ജീവനക്കാരുടെ ആനുകൂല്യച്ചെലവുകൾ കുറഞ്ഞുവെന്ന് കാണുക അവർ ചില ജീവനക്കാരെ നീക്കംചെയ്തിരിക്കാം അതിനാൽ ഇത് റെവന്യൂ ട്രെൻഡ് ഇത് എക്സ്പെൻസ് ട്രെൻഡ് ഇപ്പോൾ ഇവ രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബിഫോർ എക്സ്സെപ്ഷനൽ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് നിങ്ങൾക് കിട്ടും നോക്കു ലാഭം ക്രമേണ വർദ്ധിച്ചു എക്സ്സെപ്ഷനൽ ഐറ്റം എന്ന് ഒന്ന് ഉണ്ടായിരുന്നു ഈ 47 ഇത് ടാക്സബിൾ പ്രോഫിറ്റ് കണക്കു കൂട്ടുന്നതിനു മുൻപ് കാണിക്കണം ഇപ്പോൾ നിങ്ങൾക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടി അതിനു ശേഷം ടാക്സ് ഭാഗം വരും കറണ്ട് ടാക്സ് MAT ക്രെഡിറ്റ് എന്റിറ്റിൽമെൻറ് ഡിഫേർഡ് ടാക്സ് എല്ലാം കൂടെ ടോട്ടൽ റെക്സ് ഇതിനെ റ്റോട്ടൽ ടാക്സ് എക്സ്പെൻസ് എന്ന് വിളിക്കാം അപ്പോൾ ഇത് നികുതിയ്ക്ക് മുമ്പുള്ള ലാഭമായിരുന്നു 1695 ഇപ്പോൾ ഈ ഘട്ടത്തിൽ നികുതിയ്ക്ക് ശേഷം ഉള്ള ലാഭം നിങ്ങൾക്ക് ലഭിക്കും തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ നിന്നുള്ള ലാഭമോ നഷ്ടമോ ഇതാണ് കാരണം ഈ കമ്പനിക്കായി നിർത്തലാക്കിയ പ്രവർത്തനങ്ങളൊന്നുമില്ല അതിനാൽ അതേ തുക വർഷത്തിലെ ലാഭമോ നഷ്ടമോ ആണ് ഇപ്പോൾ നിങ്ങൾ അപ്പ്രോപ്രിയേഷൻസ് കണക്കാക്കുന്നു ഡിവിഡന്റും ഡിവിഡണ്ടിന്മേൽ ഉള്ള ടാക്സും ആണ് അപ്പ്രോപ്രിയേഷൻസ് ഇക്വിറ്റി ഡിവിഡന്റ് സ്ഥിരമാണെന്നും പ്രീഫെറെൻസ് ഡിവിഡന്റ് ആദ്യ 2 വർഷത്തേക്ക് സ്ഥിരമാണെന്നും എന്നാൽ നിലവിലെ വർഷത്തിൽ 0 ആണെന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ വർഷത്തെ റീറ്റൈൻഡ് ഏർണിങ്സ് 801 ആണ് ഇപ്പോൾ മറ്റ് വിവരങ്ങൾ കാണിക്കേണ്ടതുണ്ട് മറ്റ് വിവരങ്ങളിൽ ആദ്യം അവർ ബേസിക് ഇപിഎസും ഡൈല്യൂറ്റഡ് ഇപിഎസും കാണിക്കണം ഇപ്പോൾ ഇപിഎസ് എന്താണ് അർത്ഥമാക്കുന്നത് ഇത് അനുപാതങ്ങളിലൊന്നാണ് പക്ഷേ ഓരോ ഷെയറിനും വളരെ പ്രധാനപ്പെട്ട അനുപാതം ഈ വർഷത്തെ ലാഭം 1034 ആണെന്ന് ഇപ്പോൾ ഇവിടെ കാണാം ഇത് കമ്പനിയുടെ മൊത്തം ലാഭമാണ് എന്നാൽ ഷെയർഹോൾഡർ പറയുന്നത് ഞങ്ങൾ എത്രമാത്രം ലാഭം നേടുന്നു അല്ലെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ അതിനാൽ എആർണിങ്സ് പെർ ഷെയർന്റെ ഫോർമുല ഇതാണ് PAT ഷെയറുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു ഞാൻ ഇവിടെ എഴുതാം ഷെയറുകളുടെ എണ്ണം നിങ്ങൾക്ക് അറിയില്ലെന്ന് ഇപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കാരണം നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നതേ ഉള്ളു നിങ്ങൾ പ്രിൻറൌട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക് ഈ കണക്കു ലഭിക്കും നമുക് ഇത് ബാലൻസ് ഷീറ്റ് ചെയ്തതിനു ശേഷം കണക്കു കൂട്ടാം അപ്പോൾ ഈ അനുപാതം വച്ച നിങ്ങൾക് ബേസിക് EPS ഡൈല്യൂട്ടഡ് EPS എന്നിവ കണക്കാക്കാം ഇപ്പോൾ ബേസിക് EPS ഡൈല്യൂട്ടഡ് EPS ഇവ തമ്മിലെ വ്യത്യാസം എന്താണ് ന്യൂമറേറ്റർ ഒരേ PAT ആണെന്ന് കാണുക എന്നാൽ ഡിനോമിനേറ്ററിന് മാറ്റാൻ കഴിയും ബേസിക് ഇപിഎസിൽ നിലവിലെ ഷെയറുകളുടെ എണ്ണത്തിൽ PAT കണക്കാക്കുന്നു ഡിനോമിനേറ്ററിൽ ഡൈല്യൂട്ടഡ് ഇപിഎസിനായി നമ്മൾ ഭാവിയിൽ ഇഷ്യു ചെയ്യാനിടയുള്ള ചില ഷെയറുകൾ ചേർക്കുന്നു ഉദാഹരണത്തിന് ചില ഷെയർ വാറന്റുകൾ പുറപ്പെടുവിച്ചേക്കാം അത് പിന്നീടുള്ള തീയതിയിൽ ഷെയറുകളായി പരിവർത്തനം ചെയ്യപ്പെടും അതിനാൽ അവ ഭാവിയിൽ ഷെയറുകളാകാൻ പോകുന്നു PAT കണ്ടുപിടിക്കുന്നതിനു ഒപ്പം ഈ ഷെയറുകളുടെ എണ്ണവും കൂട്ടുന്നു അതിനാൽ അത് ബേസിക് PAT യെക്കാളും കുറച്ചു കുറവായിരിക്കും അതിനാൽ അതിനെ ഡൈല്യൂട്ടഡ് EPS എന്ന് വിളിക്കുന്നു ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൽ വ്യത്യാസമില്ല അതിനാൽ രണ്ട് തുകയും തുല്യമാണ് അതിനു ശേഷം ഈ കമ്പനികൾ ഇറക്കുമതി ചെയ്തതും തദ്ദേശീയവുമായ അസംസ്കൃത വസ്തുക്കളുടെ മൂല്യം റിപ്പോർട്ടുചെയ്യേണ്ടതുള്ളതിനാൽ ഈ രണ്ട് ഇനങ്ങൾ കാണിക്കുന്നു ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽസ് ഇന്ഡിജനിസ് റോ മെറ്റീരിയൽസ് അതിനു ശേഷം ഡിവിഡന്റും ഡിവിഡന്റ് ശതമാനവും കാണിക്കണം 216 ലാഭവിഹിതം നമ്മൾ ഇതിനകം കാണിച്ചു അത് 225 ശതമാനമായി പരിവർത്തനം ചെയ്യാൻ കഴിയും ഇനി ഡിവിഡന്റ് ശതമാനം നിങ്ങൾ എങ്ങനെ കണക്കാക്കും നിങ്ങളിൽ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ ഇക്വിറ്റി ഡിവിഡന്റ് എടുത്ത് ഇക്വിറ്റി ഷെയറുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക അപ്പോൾ ഡിവിഡന്റ് പെർ ഷെയർ കിട്ടും എന്നാൽ ഡിവിഡന്റിന്റെ മൊത്തം ശതമാനം എന്താണെന്നു അറിയണ്ടേ അതിനാൽ മൂലധനത്തിന്റെ ആകെ തുക ഉപയോഗിച്ച് നാം അത് കണക്കാക്കണം 216 ന്റെ ലാഭവിഹിതം 1000 മൂലധനത്തിൽ നൽകിയിട്ടുണ്ടെന്ന് കരുതുക ഇവിടെ കണക്കു കൂട്ടാൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എടുക്കും ഇക്വിറ്റി ഡിവിഡന്റ് നിങ്ങൾ പണമടച്ച മൂലധനത്തിലൂടെ വിഭജിച്ചാൽ നിങ്ങൾക്ക് ഇക്വിറ്റി ഡിവിഡന്റിന്റെ ശതമാനം ഒരു നിരക്കായി ലഭിക്കും അതായത് 225 ശതമാനം ഇപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം ഇപ്പോൾ പി എൽ എന്നിവയ്ക്ക് സമാനമായി ബാലൻസ് ഷീറ്റിന്റെ 3 വർഷത്തെ കണക്കുകൾ നൽകിയിരിക്കുന്നു ഈ ഡാറ്റ ഉപയോഗിച്ച് നിങ്ങൾ സീ ടിവിക്കായി ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടതുണ്ട് ഈ ഇനങ്ങൾ പരിശോധിക്കുക നമ്മൾ ഓരോ ഇനത്തെയും അടയാളപ്പെടുത്തുന്നത് തുടരും ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അതിൽ പല വിഭാഗങ്ങളുണ്ട് അസ്സെറ്റ്സിനു കീഴിൽ നോൺ കറണ്ട് അസ്സെറ്റ്സും കറണ്ട് അസ്സെറ്റ്സും അത് പോലെ ലയബിലിറ്റിക് കീഴിൽ ഇക്വിറ്റിയും നോൺ കറണ്ട് ലയബിലിറ്റി കറണ്ട് ലയബിലിറ്റി അതിനാൽ ഓരോ ഇനവും മനസിലാക്കാനും ഏത് തലക്കെട്ടിന് കീഴിലാണ് വീഴുകയെന്നും ചില അടയാളങ്ങൾ നൽകാൻ ശ്രമിക്കുക അപ്പോൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമാകും ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്സ് ഇത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് കെട്ടിടം നിർമ്മാണത്തിലിട്ടുണ്ടെങ്കിൽ അവ തയ്യാറായിക്കഴിഞ്ഞാൽ അവ ഫിക്സഡ് അസറ്റ് ആയി മാറും പക്ഷേ അവ നിർമ്മിക്കപ്പെടുന്നിടത്തോളം കാലം അവ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രെസ്സിന്റെ ഭാഗമാണ് അതിനാൽ ഇത് നോൺകറന്റ് അസറ്റുകൾക്ക് കീഴിലുള്ള ഫിക്സഡ് അസ്സെറ്റിന്റെ കീഴിലാണ് അതിനാൽ ഞങ്ങൾ അതിനെ എൻസിഎ എന്ന് അടയാളപ്പെടുത്തും എൻസിഎ എന്നാൽ നോൺകറന്റ് അസറ്റ് ഈ അടയാളപ്പെടുത്തൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് കാണുക അടുത്തത് പ്രീഫെറെൻസ് ഷെയർ ക്യാപിറ്റൽ ആണ് ഇപ്പോൾ ഇത് എവിടെ ഇടും ഇതൊരു തരം ഉടമസ്ഥരുടെ ഫണ്ടാണ് അതിനാൽ ഇ എന്ന് മാർക്ക് ചെയ്യാം ഇ എന്നത് ഇക്വിറ്റി അല്ല ഇക്വിറ്റി ഷെയറിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ഒരു പ്രീഫെറെൻസ് ഷെയറാണ് പക്ഷേ ഇത് ഉടമസ്ഥരുടെ ഫണ്ടുകൾക്ക് കീഴിലാണ് മറ്റ് നോൺകറന്റ് അസറ്റുകൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ഒരു നോൺകറന്റ് അസറ്റാണ് അതിനാൽ നമ്മൾ ഇത് എൻസിഎ എന്ന് അടയാളപ്പെടുത്തും നിങ്ങൾക്കത് മനസിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇപ്പോൾ ഈ സെഷന്റെ സമയം കഴിഞ്ഞു അടുത്ത സെഷനിൽ നമുക് തുടരാം അതിനാൽ നിങ്ങൾക്ക് ഷീറ്റ് എടുത്ത് തനിയെ ചെയ്തു നോക്ക് അടുത്ത സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഉത്തരവുമായി താരതമ്യം ചെയ്യാനും കഴിയും അതിനാൽ ഇപ്പോൾ ഇവിടെ നിർത്തും നമസ്തേ നന്ദി